അഭിവാദ്യങ്ങൾ മൊഡ്യൂൾ 1 ന്റെ യൂണിറ്റ് 6 ലേക്ക് സ്വാഗതം ഈ യൂണിറ്റിൽ ഞങ്ങൾ ഫലങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കുന്ന അനേകം ഫലങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഞങ്ങൾ പിഇഒകളെയും പിഎസ്ഒകളെയും വിളിക്കുന്നതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് മുമ്പത്തെ യൂണിറ്റ് U5 ൽ അക്രഡിറ്റേഷൻ പ്രക്രിയയുടെ സ്വഭാവത്തെക്കുറിച്ചും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നടത്തുന്നതിനുമുള്ള ചട്ടക്കൂട് എങ്ങനെ നൽകുന്നുവെന്നും ഞങ്ങൾ പരിശോധിച്ചു ഒരു ദേശീയ ഏജൻസി തിരിച്ചറിഞ്ഞ ഒരു അക്രഡിറ്റേഷൻ പ്രക്രിയ പിന്തുടരുന്നതിന്റെ ഗുണം അതാണ് എല്ലായ്പ്പോഴും ചില സംശയങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ പ്രക്രിയയ്ക്ക് അനുയോജ്യമല്ലാത്ത ചില അസാധാരണമായ വ്യവസ്ഥകൾ നിങ്ങൾ കണ്ടെത്തും ഒരുതരം പ്രോഗ്രാമുകൾക്കായി എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കുമായി എന്ന് പറയട്ടെ ഒരു അക്രഡിറ്റേഷൻ പ്രക്രിയ സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ലോകത്തെവിടെയും ഏത് അക്രഡിറ്റേഷൻ പ്രക്രിയയുടെയും സ്വഭാവം അതായിരിക്കും എല്ലായ്പ്പോഴും കുറച്ച് ഒഴിവാക്കലുകൾ ഉണ്ടായിരിക്കും പക്ഷേ ദേശീയ തലത്തിലുള്ള അക്രഡിറ്റേഷൻ പ്രക്രിയ ഉപേക്ഷിക്കുന്നതിനോ വലിച്ചെറിയുന്നതിനോ കാരണമാകരുത് അക്രഡിറ്റേഷൻ പ്രക്രിയ അതിന്റെ ഗുണനിലവാര ലൂപ്പ് അടയ്ക്കുന്നതിന്റെ പ്രധാന ആശയം അല്ലെങ്കിൽ പ്രധാന വശങ്ങൾ പഠന നിലവാരത്തിൽ നിരന്തരമായ പുരോഗതിയിലേക്ക് നയിക്കും അതിനർത്ഥം ലൂപ്പ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഏതൊരു സ്ഥാപനത്തിനും സ്വയം ഉയർത്താൻ പഠന നിലവാരം തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിന് സ്വന്തം ബൂട്ട് സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് കഴിയും പഠന നിലവാരം മെച്ചപ്പെടുമ്പോൾ പ്ലെയ്സ്മെന്റുകളുടെ ഗുണനിലവാരവും മെച്ചപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഈ പ്രത്യേക യൂണിറ്റിലേക്ക് വരുന്നത് ഞങ്ങൾ നോക്കുന്നതോ പരിഗണിക്കുന്നതോ ആയ രണ്ട് ഫലങ്ങൾ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും പ്രോഗ്രാം പ്രത്യേക ഫലങ്ങടെയും പങ്കും സ്വഭാവവും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ രൂപകൽപ്പനയിലും പെരുമാറ്റത്തിലും മനസിലാക്കുന്നു ഇതിന്റെ പങ്കും സ്വഭാവവും മനസിലാക്കിയാൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനായി പിഇഒകളും പിഎസ്ഒകളും എഴുതാൻ ഒരാൾക്ക് കഴിയണം എഞ്ചിനീയറിംഗിലെ ഒരു ബിരുദ പ്രോഗ്രാമിന്റെ പിഇഒകളെയും പിഎസ്ഒകളെയും പ്രതിനിധീകരിക്കുന്നതിന് ഒരാൾ എന്ത് തരം പ്രസ്താവനകൾ എഴുതണം നമ്മുടെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം അവലോകനം ചെയ്യുന്നതിന് ഇപ്പോൾ നാം കുറച്ച് മിനിറ്റ് ചെലവഴിക്കുന്നു അടിസ്ഥാനപരമായി ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം അദ്ധ്യാപനത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു വിദ്യാർത്ഥികളുടെ പഠനം പ്രധാനമല്ല എന്നല്ല നേരത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അദ്ധ്യാപനം അദ്ധ്യാപനത്തിന്റെ നിലവാരം എന്നാൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരമാണ് എന്താണ് ഫലം ഒരു പഠനാനുഭവത്തിന്റെ അവസാനം വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ഫലമാണ് നിങ്ങൾ തിരിച്ചറിയുന്ന ഏതൊരു ഫലവും നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായിരിക്കണം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രസ്താവനകൾ നിരീക്ഷണത്തിന്റെയും അളക്കലിന്റെയും ഈ മാനദണ്ഡം പാലിക്കണം അംഗീകൃത എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ ബിരുദധാരികൾ ആവശ്യമായ വിജ്ഞാനശാഖപരമായ പ്രൊഫഷണൽ നൈപുണ്യവും മനോഭാവവും നേടിയിട്ടുണ്ടെന്ന് എൻബിഎയുടെ അക്രഡിറ്റേഷൻ തത്പരകക്ഷികൾക്കും സമൂഹത്തിനും മൊത്തത്തിൽ വലിയ തോതിൽ ഉറപ്പുനൽകുന്നു അതാണ് സമൂഹത്തിന് മൊത്തത്തിൽ ഇത് നൽകുന്ന ഉറപ്പ് ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ഫലങ്ങൾ മൂന്ന് തലങ്ങളിൽ പരിഗണിക്കപ്പെടുന്നു പിഇഒ കൾ പിഒ കൾ പിഎസ്ഒ കൾ എന്നിവ ഒരേ നിലയിലാണ് കൂടാതെ സിഒ കോഴ്സ് ഫലങ്ങൾ കോഴ്സ് തലത്തിലാണ് അതിനാൽ ഇത് OBE യുടെ സത്തയാണ് ഫലങ്ങളുടെ നിലവാരത്തിലേക്ക് വന്ന് പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു ഓരോ തരത്തിലുള്ള ഫലങ്ങളുമായും നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാം തുടർന്ന് ഞങ്ങൾ കൂടുതൽ വ്യക്തമായി പിഇഒകളിലേക്കും പിഎസ്ഒകളിലേക്കും വരും ബിരുദാനന്തരം നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നേടാവുന്ന തൊഴിൽപരമായ നേട്ടങ്ങളേയും ഔദ്യോഗിക ജീവിതത്തേയും വിശദീകരിക്കുന്ന സ്പഷ്ടമായ പ്രസ്താവനകളാണ് പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ അതിനർത്ഥം നിങ്ങളുടെ ബിരുദധാരികൾ ബിരുദാനന്തരം നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ എന്തുതരം പ്രവർത്തനങ്ങൾ നടത്തും അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നുവെന്ന് നിങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് തീർച്ചയായും അവർ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളെയും ആ 5 വർഷങ്ങളിൽ അവർ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കും എന്നാൽ അവയിൽ ഉൾപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ പ്രോഗ്രാം ഫലങ്ങളിൽ മറ്റൊന്നിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ നിന്ന് ബിരുദ സമയത്ത് വിദ്യാർത്ഥിക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് വിവരിക്കുന്ന പ്രസ്താവനകളാണ് പിഒകൾ അതാണ് ഏത് ബിരുദ എഞ്ചിനീയറും ശാഖാഭേദമന്യെ നേടേണ്ട ചില ഫലങ്ങൾ ഉണ്ടെന്ന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ കണക്കാക്കുന്നത് അതിനാൽ ആ പരിധിവരെ അവയെ സാധാരണയായി എൻബിഎ പോലുള്ള അംഗീകൃത ഏജൻസികൾ അല്ലെങ്കിൽ യുഎസ് പശ്ചാത്തലത്തിൽ എബിഇടി തിരിച്ചറിയുന്നു എഞ്ചിനീയറിംഗിന്റെ എല്ലാ ശാഖകളുമായി സ്വയം ബന്ധപ്പെടാൻ കഴിയുന്ന ഭാഷയിലാണ് അവ എഴുതിയത് ഇപ്പോൾ അടുത്തതിലേക്ക് വരുമ്പോൾ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ പ്രോഗ്രാം ഫലങ്ങളുടെ അതേ തലത്തിലാണ് പിഎസ്ഒകൾ ഒരു നിർദ്ദിഷ്ട എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ബിരുദധാരിയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിവരിക്കുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ നിരവധി കോളേജുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എടുക്കുമെന്ന് പറയാം അവ സമാനമായിരിക്കണമെന്നില്ല അവർക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് മറ്റൊരു ബിരുദ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ നിന്ന് സ്വയം വേർതിരിച്ചറിയാൻ കഴിയും അതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവം എന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പ്രോഗ്രാമിനെ എനിക്ക് സമാന പ്രോഗ്രാമുകളിൽ നിന്ന് എന്റെ പിഎസ്ഒകളിലൂടെ വേർതിരിക്കുന്ന രീതിയിൽ എഴുതാൻ കഴിയുമെന്ന് പറയട്ടെ അതിനു ശേഷം കോഴ്സ് ഫലങ്ങിലേക്ക് വരാം എല്ലാത്തിനുമുപരി കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് ധാരാളം കോഴ്സുകളിലൂടെയാണ് കോർ കോഴ്സുകൾക്ക് പുറമേ എലക്ടീവ് ഉണ്ട് കൂടാതെ ചില പ്രോജക്റ്റുകളും ചില പാഠ്യേതര അല്ലെങ്കിൽ സഹ പാഠ്യ പ്രവർത്തനങ്ങളും ഉണ്ടാകാം എന്നാൽ ഏതൊരു പ്രോഗ്രാമിന്റെയും പ്രധാന ഭാഗം നിങ്ങളുടെ പക്കലുള്ള ബിരുദ പ്രോഗ്രാം കോഴ്സുകളുടെ എണ്ണമാണ് അതിനാൽ ഒരു കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥിക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് വിവരിക്കുന്ന പ്രസ്താവനകളാണ് സിഒകൾ അല്ലെങ്കിൽ കോഴ്സ് ഫലങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു സ്വയംഭരണ സ്ഥാപനത്തിൽ എന്ത് സംഭവിക്കുന്നു അത് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ വകുപ്പ് തന്നെ കോഴ്സ് ഫലങ്ങൾ തിരിച്ചറിയും കാരണം ഇൻസ്ട്രക്ടർ സെമസ്റ്ററിൽ നിന്ന് സെമസ്റ്ററിലേക്ക് മാറാം കൂടാതെ സിസ്റ്റം അനുവദിക്കുകയാണെങ്കിൽ കോഴ്സ് ഫലങ്ങൾ എന്താണെന്ന് സെമസ്റ്ററിന്റെ തുടക്കത്തിൽ ഇൻസ്ട്രക്ടർക്ക് തന്നെ നിർവചിക്കാൻ കഴിയും ഇന്ത്യയിലെ എൻഐടികളും ഐഐടികളും പോലുള്ള സ്ഥാപനങ്ങളിൽ അത്തരമൊരു കാര്യം സംഭവിക്കുന്നു എന്നാൽ മറ്റ് സാഹചര്യങ്ങളിൽ വകുപ്പ് തന്നെ നിർവചിച്ചിരിക്കുന്ന കോഴ്സ് ഫലങ്ങൾ നിങ്ങൾ പിന്തുടരേണ്ടിവരും ഒരു സർവകലാശാലയിൽ സ്വയംഭരണാധികാരമില്ലാത്ത സ്ഥാപനമായ ടയർ 2 സ്ഥാപനങ്ങളിൽ ആ സർവ്വകലാശാലയുടെ പ്രോഗ്രാമിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കോഴ്സ് ഫലങ്ങൾ തിരിച്ചറിയും ഇവിടെ സംഭവിക്കുന്നത് വിശാലമായ കോഴ്സ് ഫലങ്ങളിൽ ഇതിനകം തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി നൽകിയ കോഴ്സ് ഫലങ്ങൾ മാറ്റാൻ ഇൻസ്ട്രക്ടർക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് ഒരു പ്രത്യേക കോളേജിലേക്ക് നോക്കുമ്പോൾ അത്തരം സ്വാതന്ത്ര്യം നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അനുവദിക്കും കൂടാതെ കോഴ്സ് ഫലങ്ങളിൽ ഒരു പ്രത്യേക വകുപ്പ് നടത്തുന്ന പാഠ്യപദ്ധതിയെക്കുറിച്ചുള്ള അവരുടെ വ്യാഖ്യാനം എങ്ങനെയാണെന്നും ചോദിക്കും ഇപ്പോൾ ഞങ്ങൾ പിഇഒകളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതാണ് ബന്ധം വകുപ്പിന്റെ ദൌത്യം ഇതിനകം എഴുതിയിട്ടുണ്ട് രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ച് പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് വകുപ്പിന്റെ ദൌത്യം പ്രകടിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു മിഷൻ സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെ എഴുതാമെന്നതിനെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ ദൌത്യത്തിൽ നിന്ന് ആരംഭിച്ച് നിങ്ങൾ എല്ലാ തല്പരകക്ഷികളിൽ നിന്നും പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു അവർ വ്യവസായം പൂർവ്വ വിദ്യാർത്ഥികൾ ഫാക്കൽറ്റി ബിരുദ വിദ്യാർത്ഥികൾ എന്നിവരാണ് ഈ കമ്മിറ്റി മസ്തിഷ്കോദ്ദീപനം നടത്തും ഒപ്പം ഒരുമിച്ച് മിഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഇവ രണ്ടും പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുകയും പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എഴുതാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും ഇവിടെ നിങ്ങൾ ഈ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യാൻ ആഗ്രഹിക്കാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് കാലയളവിലും നാല് വർഷത്തിലൊരിക്കലോ അഞ്ച് വർഷത്തിലൊരിക്കലോ പറയാം നിങ്ങൾ വീണ്ടും അവലോകനം ചെയ്യാനും പരിഷ്ക്കരിക്കാനും ശ്രമിക്കുമ്പോൾ തല്പരകക്ഷികൾ ഒത്തുചേരുന്ന പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടതുണ്ട് നിലവിലുള്ള പിഇഒകൾ എന്തുകൊണ്ട് പരിഷ്ക്കരിക്കണമെന്ന് തീരുമാനിക്കുകയും മസ്തിഷ്കോദ്ദീപനത്തെത്തുടർന്ന് കമ്മിറ്റി അത് തയ്യാറാക്കുകയും ബന്ധപ്പെട്ടവരുമായി പങ്കിടുകയും തുടർന്ന് നിങ്ങൾ പരിഷ്ക്കരിക്കുകയും ചെയ്യുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ ദൌത്യത്തെ PEO കളുടെ ആശ്രിതത്വത്തിലൂടെ മിഷനുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ മിഷൻ പിഇഒ മാട്രിക്സ് എന്നതിലൂടെ പ്രകടിപ്പിക്കുന്നു അക്രഡിറ്റേഷനെക്കുറിച്ചുള്ള ഈ മിഷൻ പിഇഒ മാട്രിക്സ് തയ്യാറാക്കുന്നതിനുള്ള യന്ത്രനിർമ്മിതി നിലവിൽ പരിമിതമായി എന്നാൽ കൂടുതൽ വിശദമായി നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കാണുന്നു ഇപ്പോൾ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത് പ്രോഗ്രാം പൂർത്തിയാക്കി നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ പ്രോഗ്രാമിന്റെ ബിരുദധാരികൾ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഈ പ്രസ്താവനകൾ ഒരു പരിധിവരെ അമൂർത്തമാകാം പക്ഷേ അവ എണ്ണത്തിൽ ചെറുതായിരിക്കണം കൂടാതെ നേടാൻ കഴിയുന്നതുമായിരിക്കണം ഒരു സിവിൽ എഞ്ചിനീയർ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ രാജ്യത്തെ പ്രധാന ഡാമുകളിലൊന്ന് നിർവചിക്കാനുള്ള ഒരു പ്രോജക്ടിനെ നയിക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല ഇത് അഭികാമ്യമാണെങ്കിലും വ്യക്തികളാരും ആ ഘട്ടത്തിലേക്ക് വളരുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ നാം എഴുതുന്ന എന്തും നേടാൻ കഴിയുന്നത് ആയിരിക്കണം ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്ന വകുപ്പിന്റെ കാഴ്ചപ്പാടിൽ നിന്നും ദൌത്യത്തിൽ നിന്നും പിന്തുടരുകയും ഒരു സ്ഥാപിത പ്രക്രിയ പിന്തുടരുകയും വേണം ഇത് ഏറ്റവും പ്രധാനമാണ് ഞങ്ങൾ പിന്തുടരുന്ന പ്രോസസ് എന്താണെന്ന് നിങ്ങൾ ഒരു പ്രമാണം എഴുതണം അത് ഡോക്യുമെന്റ് ചെയ്യുകയും പ്രക്രിയയെ പിന്തുടരുകയും വേണം അതിനാൽ പിഇഒകളുടെ എണ്ണം ഞങ്ങൾ ഇത് മൂന്ന് മുതൽ അഞ്ച് വരെ എവിടെയും പരിമിതപ്പെടുത്തുന്നു എൻബിഎയും ഇത് ആവശ്യപ്പെടുന്നു പിഇഒകളുടെ നേട്ടം അളക്കാവുന്നതായിരിക്കണം പക്ഷേ മാർക്കറ്റ് അവസ്ഥകൾ കാരണം ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം പ്ലേസ്മെന്റ് അവസ്ഥകളാണ് പിഇഒകൾക്ക് ചുറ്റുമുള്ള ലൂപ്പ് അടയ്ക്കാൻ എൻബിഎ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ പിഇഒകൾ എഴുതുകയും അവ എത്രത്തോളം കൈവരിക്കപ്പെട്ടുവെന്ന് അളക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു ഉദാഹരണത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയർമാരിൽ 80 പേരും ഐടി വിഭാഗങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് സ്ഥിതിവിവരക്കണക്കുകൾ നൽകുന്നു പക്ഷേ വിപണി അങ്ങനെയാണ് അതിനാൽ ഞങ്ങൾ പരാതിപ്പെടുന്നില്ല പക്ഷേ അവർ പ്രായോഗികമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് കടന്നുവെന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് അതിനാൽ നിലവിൽ എൻബിഎയ്ക്ക് പിഇഒ ക്വാളിറ്റി ലൂപ്പ് അടയ്ക്കേണ്ട ആവശ്യമില്ല അതേസമയം യുഎസ്എയിലെ എബിഇടി പോലുള്ള ഒരു ഏജൻസിക്ക് പിഇഒകൾക്ക് ചുറ്റുമുള്ള ലൂപ്പ് അടയ്ക്കേണ്ടതുണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ തല്പരകക്ഷികളും അവരുടെ പ്രതിനിധികളിലൂടെ പിഇഒകൾ തിരിച്ചറിഞ്ഞ് നന്നായി നിർവചിക്കപ്പെട്ട ഒരു പ്രക്രിയയെ തുടർന്ന് ഇടയ്ക്കിടെ അവലോകനം ചെയ്യണം പിഇഒകളുടെ രൂപകൽപ്പനയ്ക്കും അവലോകനത്തിനുമുള്ള പ്രക്രിയ നിർവ്വചിക്കുകയും രേഖപ്പെടുത്തുകയും വേണം കൂടാതെ നിയുക്ത കമ്മിറ്റിയുടെ അവലോകനത്തിനോ എഴുത്തിനോ വേണ്ടി പ്രത്യേകമായി നടന്ന മീറ്റിംഗുകളുടെ മിനിറ്റ് രേഖപ്പെടുത്തണം മിനിറ്റുകളുടെ ഈ റെക്കോർഡും ലഭ്യമാക്കേണ്ട പ്രക്രിയയും എൻബിഎ നിർബന്ധിക്കുന്നു ഈ അന്തിമ പ്രസ്താവന എല്ലാ തല്പരകക്ഷികളുമായി പങ്കിടണം ശരി അതാണ് പിഇഒകളുടെ സ്വഭാവം നമുക്ക് പിഇഒ സ്റ്റേറ്റ്മെന്റുകളുടെ മറ്റ് ചില സവിശേഷതകളും നോക്കാം ആദ്യകാര്യം പിഇഒ സ്റ്റേറ്റ്മെന്റ് മിഷൻ സ്റ്റേറ്റ്മെന്റുകളുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയല്ല ദൃഢമായ പരസ്പരബന്ധം ഉണ്ടായിരിക്കണം ഇതിനായി പ്രത്യേകമായി സൃഷ്ടിച്ച ഒരു മാട്രിക്സിലൂടെ ഈ പരസ്പരബന്ധം കാണാൻ കഴിയും പിഇഒ പ്രസ്താവനകളുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രൊഫഷണൽ വിജയമാണ് അതായത് എഞ്ചിനീയറിംഗിന്റെ ആ ശാഖയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ആവശ്യമനുസരിച്ച് അവർ ആജീവനാന്ത പഠനത്തിൽ ഏർപ്പെടുന്നു അതിനർത്ഥം അവർ തുടർച്ചയായി പഠിക്കുന്നുണ്ടെന്നും അവരിൽ ചിലർ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകാനോ ഗവേഷണത്തിലേക്കോ പോകാനും സാധ്യതയുണ്ട് അവർ ചെയ്യുന്നതെന്തും അവർ നൈതികമായ പ്രൊഫഷണൽ രീതികൾ അനുസരിച്ച് ചെയ്യുന്നു അവർക്ക് ആശയവിനിമയ വൈദഗ്ധ്യമുണ്ട് അവർ ടീം കളിക്കാരാണ് നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ചിലതരം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് കുറഞ്ഞത് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്തിലും അതിൽ ഈ സവിശേഷതകൾ ഉണ്ടോ എന്ന് ഇപ്പോൾ ചില സാമ്പിൾ പിഇഒകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവ ചില ഗ്രൂപ്പ് ഫാക്കൽറ്റികൾ തയ്യാറാക്കുന്നു ഇതിനർത്ഥം ഇവ മികച്ചതാണെന്നും ഇവ അനുയോജ്യമാണെന്നും അല്ലെങ്കിൽ ഇവ മോശമാണെന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആണെന്നും അർത്ഥമാക്കുന്നില്ല ശരി ഇവിടെ ഞങ്ങൾ മൂന്ന് മുതൽ അഞ്ച് വരെ എന്താണ് എഴുതാൻ ശ്രമിക്കുന്നത് ഇവിടെ സാമ്പിൾ നാല് കാണിക്കുന്നു എന്താണ് പിഇഒ 1 ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അനുബന്ധ എഞ്ചിനീയറിംഗ് വ്യവസായങ്ങൾ എന്നിവയിൽ ഡിസൈനിംഗ് നിർമ്മാണം പരിശോധന ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ പരിപാലന സംവിധാനങ്ങളിൽ ഏർപ്പെടുക നാലോ അഞ്ചോ വർഷത്തിന്റെ അവസാനത്തിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ ബ്രാഞ്ചിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അവർ ഒന്നോ അതിലധികമോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അവ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അനുബന്ധ എഞ്ചിനീയറിംഗ് വ്യവസായ മേഖലകളിൽ നിർമ്മാണം പരിശോധന ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ വ്യവസ്ഥിതി പരിപാലനം എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട് കാരണം എല്ലായിടത്തും മെക്കാനിക്കൽ സിവിൽ കെമിക്കൽ എന്നിവയിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇവ ആവശ്യമാണ് എന്നാൽ അവർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ പരിജ്ഞാനം പ്രയോഗിക്കുന്ന സാമൂഹിക പ്രസക്തിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണവും തുടരുക പൊതുവായി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിലെ സാമൂഹിക പ്രസക്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങൾ വലിയതോതിൽ പങ്കാളികളാണ് അല്ലെങ്കിൽ അവരിൽ ചിലർ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നു അല്ലെങ്കിൽ ഗവേഷണത്തിൽ ഏർപ്പെടുന്നു മൂന്നാമത്തേത് മൾട്ടി ഡിസിപ്ലിനറി പ്രോജക്റ്റുകളിൽ വ്യക്തിഗതമായും ടീം അംഗങ്ങളായും ഫലപ്രദമായി പ്രവർത്തിക്കുക അതിനാൽ അവർ നിങ്ങൾ പറയുന്ന മറ്റ് മേഖലകളിൽ നിന്നുള്ള എഞ്ചിനീയർമാരുമായോ എഞ്ചിനീയർമാരല്ലാത്തവരുമായോ പ്രവർത്തിക്കുന്നു സംവദിക്കുന്നു അതിനാൽ ആ പരിധി വരെ അവർ മൾട്ടിഡിസിപ്ലിനറി പ്രോജക്ടുകളിൽ ഏർപ്പെടുന്നു നാലാമത്തേത് ആജീവനാന്ത പഠനം കരിയർ മെച്ചപ്പെടുത്തൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ സാമൂഹിക ആവശ്യങ്ങളോട് അനുരൂപപ്പെടുക എന്നിവയാണ് ഈ ഡാറ്റ നിങ്ങൾ എങ്ങനെ ശേഖരിക്കും നാം അത് പിന്നീടുള്ള മൊഡ്യൂളിൽ കാണും പക്ഷേ അവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ചുള്ള മതിയായ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു നിർദ്ദിഷ്ട വ്യക്തി അവൻ പിഇഒ2 മായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയാൻ ഇത് ഒരു പരിധിവരെ ആയിരിക്കാം അല്ലെങ്കിൽ മൂന്ന് തലങ്ങളിൽ ഇടപെടലിന്റെ തോത് ഞങ്ങൾ നിർവചിക്കുന്നു ഞങ്ങൾ നിലവിൽ ആ മൂന്ന് ലെവലുകൾ തിരിച്ചറിയും നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നാലോ അഞ്ചോ വർഷം മുമ്പ് ബിരുദം നേടിയ ഒരു എഞ്ചിനീയറുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഈ പിഇഒകൾ എത്രത്തോളം കൈവരിക്കാമെന്ന് പറയാൻ കഴിയും ഇപ്പോൾ നമ്മൾ എന്താണ് പിഇഒ മിഷൻ മാട്രിക്സ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ മിഷൻ സ്റ്റേറ്റ്മെന്റുകൾ രണ്ടോ മൂന്നോ നാലോ ആകാം ഓരോ പ്രസ്താവനയ്ക്കും നിരവധി വാക്യങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ തിരിച്ചറിയുക ആദ്യം മിഷൻ പ്രസ്താവനകളുടെ പ്രധാന ഘടകങ്ങൾ തിരിച്ചറിയുക എന്നതാണ് മൂന്ന് മിഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ ഓരോ മിഷൻ സ്റ്റേറ്റ്മെന്റിനും രണ്ടോ മൂന്നോ വളരെയധികം പ്രധാന ഘടകങ്ങളുണ്ട് നിങ്ങൾക്ക് അവയെ M1 M2 M3 എന്നിങ്ങനെ വിളിക്കാം പിഇഒ സ്റ്റേറ്റ്മെന്റുകളും മിഷൻ സ്റ്റേറ്റ്മെന്റുകളുടെ ഘടകങ്ങളും തമ്മിലുള്ളതാണ് മാട്രിക്സ് അതിനർത്ഥം നിങ്ങൾ പിഇഒ സ്റ്റേറ്റ്മെന്റുകളുള്ള വരികൾ റോ ആയും മിഷൻ സ്റ്റേറ്റ്മെന്റുകളുടെ പ്രധാന ഘടകങ്ങൾ കോളം ആയും ഒരു മാട്രിക്സ് സൃഷ്ടിക്കുന്നു എന്നാണ് അതിനാൽ സാമ്പിളിലെന്നപോലെ എനിക്ക് നാല് പിഇഒകൾ ഉണ്ടെങ്കിൽ മിഷൻ സ്റ്റേറ്റ്മെന്റുകളുടെ പ്രധാന ഘടകങ്ങളായി എനിക്ക് ഏകദേശം 8 മിഷൻ ഉണ്ടെങ്കിൽ എനിക്ക് 4 ബൈ 8 മാട്രിക്സ് ഉണ്ട് മാട്രിക്സിലെ ഓരോ സെല്ലിലും നിങ്ങൾ നോക്കുകയും നിങ്ങൾ ഒരു നമ്പർ ഇടുകയും ചെയ്യുന്നു പിഇഒയും മിഷന്റെ ഘടകവും തമ്മിലുള്ള മാപ്പിംഗിന്റെ കരുത്ത് ഇതായി അടയാളപ്പെടുത്താം ഇത് ഗണ്യമായതാണെങ്കിൽ നിങ്ങൾ അതിനെ 3 എന്ന് അടയാളപ്പെടുത്തുന്നു കൂടാതെ ഇത് മിതമാണെങ്കിൽ നിങ്ങൾ അതിനെ 2 എന്ന് നാമകരണം ചെയ്യും എന്നിട്ട് അത് ചെറുതാണെങ്കിൽ 1 അവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക PEO സ്റ്റേറ്റ്മെന്റും മിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാന ഘടകവും തമ്മിൽ ബന്ധമില്ല എങ്കിൽ നിങ്ങൾക്ക് 0 അല്ലെങ്കിൽ ഡാഷ് ഇടാൻ കഴിയും 3 2 അല്ലെങ്കിൽ 1 എന്നിങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് നമ്പറിനും നിങ്ങൾ ഒരു ന്യായീകരണം എഴുതണം നിങ്ങൾക്ക് തോന്നിയപോലെ അൽപം ശക്തി എഴുതാനും എന്തെങ്കിലും എഴുതാനും കഴിയില്ല ഒരു പ്രത്യേക സെല്ലിൽ 1 2 അല്ലെങ്കിൽ 3 തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ന്യായീകരിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് 4 ബൈ 8 മാട്രിക്സ് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് 32 സെല്ലുകളുണ്ട് ഓരോ സെല്ലിനും നിങ്ങൾ ഈ നമ്പർ 3 2 1 ഇടുന്നിടത്ത് നിങ്ങൾ ഒരു ന്യായീകരണം എഴുതണം അങ്ങനെയാണ് പിഇഒ സ്റ്റേറ്റ്മെന്റുകൾ പിഇഒ സ്റ്റേറ്റ്മെൻറുകൾക്ക് അന്തിമരൂപം നൽകുന്നത് ഈ പ്രക്രിയയിലൂടെ നിങ്ങൾ പിഇഒകൾ നിങ്ങളുടെ ദൌത്യവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതാണ് എന്ത് സംഭവിക്കാം കാലാകാലങ്ങളിൽ സാങ്കേതികവിദ്യയിലെ മാറ്റത്തെ ആശ്രയിച്ച് ദർശനം അതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിലും ദൌത്യത്തിൽ അല്പം മാറ്റം വരുത്താൻ വകുപ്പ് തീരുമാനിച്ചേക്കാം എന്റെ ദൌത്യം അൽപ്പം മാറുന്നു അതിനർത്ഥം ഞങ്ങൾ കാഴ്ചപ്പാടിലൂടെ പ്രകടിപ്പിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ ദൌത്യം മാറ്റിയേക്കാം ദൌത്യത്തിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതേ പിഇഒ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോഴും പ്രസക്തവും സാധുതയുള്ളതുമായി ഞാൻ കരുതുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമയമാണിത് ആവശ്യമെങ്കിൽ നാം പറയുന്ന കമ്മിറ്റി അതിൽ പ്രവർത്തിക്കുകയും അവലോകനം ചെയ്യുകയും പരിഷ്കരിക്കുകയും വേണം ഒകളുടെ പങ്ക് ഇപ്പോൾ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളിലേക്ക് വരുന്നു പിഎസ്ഒകൾ ബിരുദദാന സമയത്ത് വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് പ്രതിനിധീകരിക്കുന്നു ബിരുദാനന്തരം നാലഞ്ച് വർഷങ്ങൾ നോക്കുന്ന പിഇഒകളെപ്പോലെയല്ല പിഎസ്ഒകൾ ഒരു നിർദ്ദിഷ്ട പ്രോഗ്രാം ബിരുദദാന സമയത്ത് വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ആ പരിധി വരെ നിങ്ങൾ സംസാരിക്കുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സുവ്യക്തതയുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അവ വ്യത്യസ്തമായിരിക്കും സിവിൽ എഞ്ചിനീയറിംഗിനും അവ വ്യത്യസ്തമായിരിക്കും പിഎസ്ഒകളും പ്രോഗ്രാം നിർദ്ദിഷ്ടമാണ് ഒരാൾക്ക് അവയിൽ ധാരാളം എണ്ണം എഴുതാൻ കഴിയും പക്ഷേ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ വ്യക്തമാക്കുന്നത് രണ്ടോ നാലോ എണ്ണം ഉണ്ടായിരിക്കണം അവ വീണ്ടും നന്നായി രേഖപ്പെടുത്തിയ പ്രക്രിയയെ തുടർന്ന് നിർവചിക്കേണ്ടതുണ്ട് പിഇഒകൾ എഴുതുന്നതിനായി ഞങ്ങൾ പിന്തുടർന്ന പ്രക്രിയ സമാന രീതിയിലുള്ള പ്രക്രിയകൾ പിഎസ്ഒകൾ എഴുതുന്നതിനും പിന്തുടരണം നിങ്ങൾ പിഎസ്ഒകളെ പലപ്പോഴും അവലോകനം ചെയ്യില്ല ഒരു പ്രോഗ്രാമിന്റെ ഒരു ചക്രം സാധാരണയായി നാല് വർഷമാണെന്ന് പറയട്ടെ ഒരു തവണ ഇത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനാൽ നിങ്ങളുടെ പിഎസ്ഒകളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റീവേഡ് ചെയ്യേണ്ട മറ്റ് ചില അടിയന്തിര സാഹചര്യങ്ങളില്ലെങ്കിൽ 4 വർഷത്തിലൊരിക്കൽ അവ അവലോകനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം ഇപ്പോൾ ഈ പിഒകളിലേക്കും പിഎസ്ഒകളിലേക്കും വരുന്നു എൻബിഎ പിഒകൾ തിരിച്ചറിയുന്നു ഇവിടെ പ്രത്യേകമായി ഒരു കമ്മിറ്റി സൃഷ്ടിച്ചു അതേ കമ്മിറ്റിക്ക് മറ്റൊന്ന് കൂടെ നോക്കാം പിഇഒകൾ ഈ കമ്മിറ്റി ബന്ധപ്പെട്ടവരുമായി ഇടപഴകുകയും സമിതിയുമായി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ഇതുമായി ഇടപഴകുകയും മസ്തിഷ്കോദ്ദീപനം നടത്തുകയും തുടർന്ന് രണ്ട് മുതൽ നാല് വരെയുള്ള പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ തീരുമാനിക്കുകയും കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ പ്രോഗ്രാം ഫലങ്ങളും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളും ഒരേ നിലയിലാണ് നിങ്ങൾ പിഇഒ പിഎസ്ഒ മാട്രിക്സിലൂടെ പിഎസ്ഒകൾ പിഇഒകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇത് വളരെ വലിയ വലുപ്പമുള്ള മാട്രിക്സാണ് എനിക്ക് നാല് പിഇഒകളുണ്ടെന്നും 12 പിഒകളുണ്ടെന്നും മൂന്ന് പിഎസ്ഒകളുണ്ടെന്ന് കരുതുക അതിനാൽ 12 3 15 പിഇഒ 4 എന്നിങ്ങനെ നിങ്ങൾ കാണേണ്ട 4 ബൈ 15 മാട്രിക്സാണ് മാട്രിക്സ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് ഇവയുമായി പരസ്പര ബന്ധത്തിന്റെ കരുത്ത് മാട്രിക്സിൽ നിറയ്ക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ചില നിരകൾ ശൂന്യമാണെങ്കിൽ അതിനർത്ഥം പിഇഒകളും പിഒകളും പിഎസ്ഒകളും തമ്മിൽ പരസ്പര ബന്ധമില്ല നിങ്ങൾക്ക് പിഇഒകൾ പരിഷ്ക്കരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പിഎസ്ഒകൾ പരിഷ്ക്കരിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അതിനാൽ മാട്രിക്സ് കമ്മിറ്റിക്ക് ഒരു മികച്ച ഫീഡ്ബാക്കായി പ്രവർത്തിക്കും ശരി ഇനി നമുക്ക് പിഎസ്ഒ പ്രസ്താവനകളുടെ ഘടന നോക്കാം ഒന്നോ അതിലധികമോ പ്രവർത്തന ക്രിയകളിൽ നിന്ന് പിഎസ്ഒ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അവയിൽ ഒന്നിലധികം പ്രവർത്തന ക്രിയകൾ ഉണ്ട് വ്യക്തമായി തിരിച്ചറിഞ്ഞ സാങ്കേതിക വസ്തുക്കൾ പിന്തുടരുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം നാം ഉദാഹരണങ്ങൾ കാണും എന്നിട്ട് ഏത് തരത്തിലുള്ള പ്രവർത്തന ക്രിയകൾ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എഞ്ചിനീയർമാർ എന്താണ് ചെയ്യുന്നത് അവർ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുന്നു ഉൽപ്പന്നങ്ങളും സിസ്റ്റങ്ങളും വ്യക്തമാക്കുന്നു ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം രൂപകൽപ്പന ചെയ്യുക ആസൂത്രണം ചെയ്യുക ഉണ്ടാക്കുക നിർമ്മിക്കുക നടപ്പിലാക്കുക പരീക്ഷിക്കുക പ്രവർത്തിക്കുക തുടങ്ങിയവ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒരു സാങ്കേതികവിദ്യ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ലഭ്യമായ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക വിശകലനം ചെയ്യുക നിർണ്ണയിക്കുക കണക്കാക്കുക നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രവർത്തന ക്രിയകളുടെ ചില ഉദാഹരണങ്ങളാണിവ കോഴ്സ് ഫലങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രവർത്തന ക്രിയകൾ നോക്കും എന്നാൽ പിഎസ്ഒ സ്റ്റേറ്റ്മെന്റുകൾ എഴുതുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മതിയായ പ്രവർത്തന ക്രിയകൾ ഇവയാണ് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പിഎസ്ഒകളുടെ ഒരു സാമ്പിൾ ഇതാ ഉദാഹരണത്തിന് സർവേ മാപ്പ് പ്ലാൻ എന്നിവയാണ് പ്രവർത്തന ക്രിയകൾ മൂന്ന് പ്രവർത്തന ക്രിയകൾ ഇവയാണ് സാങ്കേതിക വസ്തുക്കൾ എന്തൊക്കെയാണ് കെട്ടിടങ്ങൾക്കായുള്ള ലേഔട്ടുകൾ ഘടനകൾക്കുള്ള ലേഔട്ടുകൾ അല്ലെങ്കിൽ കനാലുകൾക്കും റോഡുകൾക്കുമായുള്ള വിന്യാസത്തിനുള്ള ലേഔട്ടുകൾ അതിനാൽ അവ സാങ്കേതിക വസ്തുക്കളാണ് ഉദാഹരണത്തിന് ഞങ്ങൾ എഴുതിയിട്ടില്ലാത്ത ഈ പ്രസ്താവനയിൽ നിർദ്ദിഷ്ട ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിബന്ധനകൾ സ്ഥാപിക്കാമെന്ന് പറയാം ഓട്ടോകാഡ് അല്ലെങ്കിൽ ചില സർവേ ടൂൾ അല്ലെങ്കിൽ മാറ്റ്ലാബ് നിങ്ങൾ വിളിക്കുന്നതെന്തും ഉപയോഗിക്കുന്നതുപോലെ നിങ്ങൾക്ക് ചില നിബന്ധനകളും ഇതിനടിയിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ രണ്ടാമത്തേത് വ്യക്തമാക്കുക രൂപകൽപ്പന ചെയ്യുക മേൽനോട്ടം വഹിക്കുക പരീക്ഷിക്കുക വിലയിരുത്തുക ഇതാണ് പ്രവർത്തന ക്രിയകൾ വസതികൾ പൊതു കെട്ടിടങ്ങൾ വ്യവസായങ്ങൾ ജലസേചന ഘടന പവർഹൌസുകൾ ഹൈവേകൾ റെയിൽവേ എയർവേകൾ ഡോക്കുകൾ തുറമുഖങ്ങൾ എന്നിവയ്ക്കുള്ള അടിസ്ഥാനങ്ങളും സൂപ്പർ സ്ട്രക്ചറുകളും അതെ ഇതൊരു നീണ്ട പട്ടികയാണ് ഒരു പ്രത്യേക പ്രോഗ്രാം എന്നാൽ ഈ വീക്ഷണത്തിൽ കൂടുതൽ ഊന്നൽ നൽകുക എന്നതാണ് മറ്റേതെങ്കിലും പ്രോഗ്രാമിൽ ഞാൻ വളരെയധികം സാങ്കേതിക വസ്തുക്കൾ ഉൾപ്പെടുത്തുന്നില്ല മൂന്നാമത്തേത് ജലസ്രോതസ്സുകൾ വിഭവങ്ങൾ വിശകലനം ചെയ്യുക സുരക്ഷിതവും ഉറപ്പുള്ളതുമായ പിൻവലിക്കലുകൾ കണക്കാക്കുന്നതിനുള്ള ജലവൈദ്യുത സംവിധാനങ്ങൾ ജലഗതാഗത സംവിധാനങ്ങൾ ഹൈഡ്രോളിക് മെഷീനുകൾ സർജ്ജ് സംവിധാനങ്ങൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുക അതിനാൽ ഹൈഡ്രോളിക്സിലെ മുഴുവൻ മേഖലയും കീഴടക്കപ്പെടുക്കുകയും നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പകർത്തുകയും ചെയ്യുന്നു പരിസ്ഥിതി എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ വ്യക്തമാക്കുക തിരഞ്ഞെടുക്കുക രൂപപ്പെടുത്തുക നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് സാധാരണയായി നാലോ അഞ്ചോ പ്രത്യേകതകൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് നാലിൽ കൂടുതൽ എഴുതാൻ കഴിയില്ല പ്രത്യേക ബ്രാഞ്ചിനെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന പിഎസ്ഒകൾ എഴുതാൻ ശ്രമിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് പിഎസ്ഒകൾ പിഇഒകൾ എന്താണ് പിഎസ്ഒകൾ അവ എങ്ങനെ എഴുതുന്നു അവ എഴുതുന്നതിൽ പാലിക്കേണ്ട വ്യവസ്ഥകൾ എന്നിവ നമ്മൾ കണ്ടു അതിനാൽ ഞങ്ങൾ ഈ അസൈൻമെന്റ് എഴുതാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ബ്രാഞ്ചിലെ ഒരു ബിഇ പ്രോഗ്രാമിനായി രണ്ടോ അഞ്ചോ പിഇഒകൾ എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ചിലെ ഒരു BE പ്രോഗ്രാമിനായി രണ്ടോ നാലോ പിഎസ്ഒകൾ എഴുതുക ഈ ആവശ്യകതയാണെന്ന് തോന്നുന്നു പിഇഒകളും പിഎസ്ഒകളും എഴുതുന്നതിൽ ഞങ്ങൾ ഊന്നിപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല അതിനാൽ ഈ അഭ്യാസങ്ങൾ PEO PSO സ്റ്റേറ്റ്മെന്റുകളുടെ സ്വഭാവം മനസിലാക്കാൻ സഹായിക്കുന്നതിന് മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനാൽ നിങ്ങൾ വ്യക്തിഗത തലത്തിൽ ഒരു അഭ്യാസം ചെയ്യുന്നു എന്നാൽ വാസ്തവത്തിൽ ഈ അസൈൻമെന്റിന്റെ ഈ ഔട്ട്പുട്ടുകൾ ഒരിക്കലും അന്തിമമായി കണക്കാക്കരുത് നന്നായി രേഖപ്പെടുത്തിയ പ്രക്രിയയെ തുടർന്ന് സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ പ്രത്യേകമായി നിയുക്തമാക്കിയ കമ്മിറ്റികളാണ് പിഇഒകളും പിഎസ്ഒകളും എഴുതേണ്ടതെന്ന് ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ അവ ആദ്യ തലത്തിൽ പരിഗണിക്കാം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു കൂട്ടം ഫാക്കൽറ്റികൾക്ക് ഒരുമിച്ച് ഇരിക്കാനും ഈ പ്രസ്താവനകൾ തയ്യാറാക്കാനും അത് കമ്മിറ്റിയുടെ ആദ്യ പതിപ്പായി അവതരിപ്പിക്കാനും കഴിയും കൂടാതെ കമ്മിറ്റിക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും വിമർശനബുദ്ധ്യാ ചിന്തിക്കാനും പിഇഒ പ്രസ്താവനകളും പിഎസ്ഒ പ്രസ്താവനകളും അന്തിമമാക്കാനും കഴിയും പ്രോഗ്രാം ഞങ്ങൾ അടുത്ത യൂണിറ്റ് U7 ൽ ആയിരിക്കും നിങ്ങൾ പ്രോഗ്രാം ഫലങ്ങൾ നോക്കുന്നത് പ്രോഗ്രാം ഫലങ്ങൾ 12 ഒരു യൂണിറ്റിൽ 12 ഫലങ്ങളെയും ഞങ്ങൾക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല അതിനാൽ അടുത്ത യൂണിറ്റിൽ എൻബിഎ സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ വിളിക്കുന്നതിന്റെ സ്വഭാവം മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും തുടർന്ന് ഞങ്ങൾ ആദ്യത്തെ അഞ്ച് പിഒകളെ പരിശോധിക്കുകയും എൻബിഎയുടെ ആദ്യത്തെ ആറ് ഫലങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സഹായിക്കുന്നതെന്ന് നോക്കുകയും ചെയ്യും വളരെയധികം നന്ദി